യൂണിവേഴ്സിറ്റികളും ഇന്റെലെക്റ്റച്ചൽ പ്രോപ്പർട്ടിയും സർവകലാശാലകളും ബൌദ്ധിക സ്വത്തും ആധുനിക സർവകലാശാലകളുടെ ഒരു സുപ്രധാന ഘടകമായി ഇന്ന് ഐ പി മാറിയിരിക്കുന്നു ആധുനിക സർവകലാശാലയുടെ അടിസ്ഥാനം ബൌദ്ധിക സ്വത്തവകാശം ആണെന്ന് നമുക്ക് പറയാൻ കഴിയും വാണിജ്യ വികസനത്തിനായി തങ്ങളുടെ കണ്ടുപിടിത്തങ്ങളെ ലൈസൻസ് ചെയ്യാൻ അനുവദിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രഖ്യാപിച്ച ബേയ് ഡോൾ ആക്റ്റ് കാരണമാണ് ഇത് സംഭവ്യമായത് ബേയ് ഡോൾ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പൊതുഫണ്ട് ഉപയോഗിക്കുന്ന സർവകലാശാലകൾക്ക് പേറ്റന്റ് ചെയ്യാൻ അനുവാദം ഇല്ലായിരുന്നു അതിൽ പൊതുഫണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും പൊതുഫണ്ട് ഉപയോഗിച്ച് പേറ്റന്റ് ചെയ്യുന്നത് പൊതുഫണ്ടിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യ സ്വകാര്യവത്കരിക്കുന്നതിനു കാരണമാകുന്നു എന്നുമുള്ള കാരണത്താലായിരുന്നു അത് അപ്പോൾ ഈ നിയമം സർവകലാശാലകൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ലൈസൻസ് നൽകാനും അതിലൂടെ വാണിജ്യവികസനം ഉണ്ടാകാനും ഇടയായാകുന്നു പേറ്റന്റ് നിയമത്തിന് ഉണ്ടായിരുന്ന ഒരു പഴയകാല അപവാദത്തിന്റെ വെളിച്ചത്തിലാണ് ഈ നിയമത്തിന്റെ വ്യാപ്തി നിങ്ങൾ മനസിലാക്കേണ്ടത് പേറ്റന്റ് നിയമങ്ങൾ പരമ്പരാഗതമായി വിദ്യാർത്ഥികളുടെ ശിക്ഷണ സംബന്ധിയായ കാര്യങ്ങെളെയും ഗവേഷണ പ്രവർത്തനങ്ങെളെയും പേറ്റന്റ് ലംഘനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുകൊണ്ടു സർവകലാശാലകൾക്കുള്ളിലോ ക്ലാസ്സ്മുറികൾക്കുളളിലോ സംഭവിക്കുന്നത് എന്തും അവ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെങ്കിലും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ആവശ്യമാണ് എന്ന കാരണത്താൽ ഒഴിവാക്കപ്പെട്ടിരുന്നു യു എസിൽ നിലനിന്നിരുന്ന നിയമത്തിൽ ഗവേഷണത്തെയും ശിക്ഷണത്തെയും ഒഴിവാക്കിയിരുന്നു ഇത് പക്ഷെ കൂടുതലും സർവ്വകലാശാലകൾ വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നു സർവകലാശാലകളിൽ സൃഷ്ടിക്കപ്പെടുന്ന ബൌദ്ധിക സ്വത്ത് വാണിജ്യവത്കരിക്കപ്പെടാവുന്നതാണ് ഇന്ത്യയിലും ഇതിന് സമാനമായി ബൌദ്ധിക സ്വത്ത് വികസിപ്പിക്കുനുതകുന്ന പൊതുഫണ്ടിന് സംരക്ഷണം നൽകുന്ന ബില്ല് പാസാക്കിയിരുന്നു ഇതിനെ പി യു പി ഫ് ഐ പി ബിൽ അഥവാ പ്രൊട്ടക്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് ഫണ്ടഡ് ഇന്റലെക്ച്ചൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു ഈ ബിൽ ഒരു ആക്ട് ആയില്ല ചില വിവാദങ്ങൾ കാരണം അത് പരാജയപെട്ടു അതിനാൽ പേറ്റന്റുകളുടെ ലൈസൻസ് സർവകലാശാലകൾക്ക് ഒരു വരുമാനമാർഗ്ഗമായി മാറി സർവകലാശാലകൾക്ക് മാത്രമല്ല ഗവേഷകർക്കും പ്രൊഫസർമാർക്കും അപ്രകാരമായി മാറി ഇതാണ് ഒരു സംരഭകസർവ്വകലാശാലയുടെ പശ്ചാത്തലം സർവകലാശാല ഒരു സംരംഭകന്റെ വേഷം അണിയുന്നു സാങ്കേതിക പരിഹാരങ്ങളും സമൂഹത്തിന്റെ വളരുന്ന സാമ്പത്തിക പ്രതീക്ഷകളും സർവ്വകലാശാലകളെ ചുറ്റിപറ്റി ഉരുത്തിരിയാൻ തുടങ്ങിയപ്പോൾ സർവ്വകലാശാലകൾ തങ്ങളുടെ അദ്ധ്യാപന പ്രവർത്തനം നിർവ്വഹിക്കുക മാത്രമല്ല അവർ പുതിയ സാങ്കേതികവിദ്യകളിലൂടെ സമൂഹത്തെ സഹായിക്കും എന്നും പ്രതീക്ഷിക്കപെട്ടു പുതിയ സാങ്കേതികവിദ്യയിലൂടെ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണം തിരികെ ലഭിക്കുന്നില്ലെങ്കിൽ ആളുകൾ അത്തരം സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടാറില്ല അതിനാൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമായി ഐ പി ഉപയോഗിച്ചു എന്ന് കാണാൻ കഴിയും ഇത് നമുക്ക് ഏതൊരു സാങ്കേതികവിദ്യയുടെ പ്രാരംഭഘട്ടത്തിലും കാണാൻ കഴിയും അത് സാങ്കേതികവിദ്യയോ ബയോടെക്നോളജിയോ ആകട്ടെ ഒരു പുതിയ സാങ്കേതികവിദ്യയുടെ പ്രാരംഭഘട്ടത്തിൽ ഐ പി യിൽ ഒരു ശ്രദ്ധയുണ്ടാകും കാരണം തങ്ങളുടെ നിക്ഷേപം എങ്ങെനെ തിരിച്ചുപിടിക്കാം എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയുന്നതരത്തിൽ അതുവരെ അവകാശങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടാവില്ല അത് കൊണ്ട് ഏതൊരു പുതിയ വ്യവസായത്തിന്റെയും പ്രാരംഭഘട്ടത്തിൽ ബൌദ്ധികസ്വത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകും എന്ന് കാണാൻ കഴിയും അത് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നു ശ്രദ്ധാപൂർവ്വമായ ഗവേഷണം നടത്തുന്നതുകൊണ്ട് സർവ്വകലാശാലകളും ഗവേഷണത്തിന്റെയും അനുബന്ധ വികസനത്തിന്റെയും വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രാഥമിക ഗവേഷണത്തെ പരിരക്ഷിക്കുന്ന തലത്തിൽ നിന്ന് ഐ പി പുതിയ ഉത്പന്നങ്ങളെ വികസിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നതിനും സർവ്വലാശാലകൾ സംഭാവന നൽകിയിട്ടുണ്ട് ഒരു സ്വകാര്യ സംഘമോ സാങ്കേതിക വിദ്യ വാണിജ്യവത്കരിക്കുന്ന ഒരു സ്ഥാപനമോ അതിന്റെ സാങ്കേതികവിദ്യ വിപണിയിൽ എത്തിക്കുന്നവരോ സർവകലാശാലാ ഗവേഷണത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതിനാൽ സർവ്വകലാശാലകൾ നടത്തുന്ന ഗവേഷണം പ്രധാനമായും വാണിജ്യമേഖലയ്ക്ക് താല്പര്യമുള്ള പരിധിയിൽ വരുന്നവയാണ് അപ്പോൾ വാണിജ്യ സ്ഥാപനവും സർവകലാശാലയും തമ്മിലുള്ള പങ്കാളിത്തം ഒരു തരം ലൈസെൻസിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു തരം സംരംഭകനിയമത്തിലേക്ക് നയിക്കും സർവകലാശാലകൾക്ക് അവരുടെ ഐ പി രണ്ട് വിശാലമായ രീതിയിൽ വ്യാപകമായി വാണിജ്യവത്കരിക്കാൻ കഴിയും ഒന്ന് അവർക്ക് സാങ്കേതിക വിദ്യയെ ലൈസൻസ് ചെയ്യാം അതിനായി കഴിയുമെങ്കിൽ അവർക്ക് പേറ്റന്റ്റുകളെ അല്ലെങ്കിൽ പ്രൊഫസർമാരെ ലൈസൻസ് ചെയ്യാം അതിലൂടെ ആ ഗവേഷകസംഘത്തിന് തന്നെ ഒരു കമ്പനിയെ ഇൻക്യൂബേറ്റ് ചെയ്യാൻ കഴിയും ഇതിനെയാണ് നമ്മൾ സംരഭകനിയമം എന്ന് വിളിക്കുന്നത് അതിനാൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യക്ക് ഒരു ലൈസൻസിങ് റൂട്ട് തിരഞ്ഞെടുക്കാം അതിലൂടെ സാങ്കേതികവിദ്യ ലൈസൻസ് ചെയ്യപെട്ട് റോയൽറ്റി നേടുന്നതാകാം അല്ലെങ്കിൽ അതൊരു സംരംഭക റൂട്ട് ആകാം അപ്പോൾ സാങ്കേതികവിദ്യ മൂന്നാം കക്ഷിക്ക് ലൈസൻസ് ചെയ്യുന്നതിന് പകരം അവർ ഒരു ചെറിയ സംഘമായി ഒരു സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ അവർ കമ്പനിയെ ഇൻക്യൂബേറ്റ് ചെയ്യുകയും അവരുടെ കമ്പനി സാങ്കേതികവിദ്യ വാണിജ്യവത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലം സർവകലാശാലയുടെ ധർമ്മമായി മാറുന്നു അത് പൊതുനന്മയ്ക്കായി ചെയ്യുന്ന ഒന്നായി മാറ്റപ്പെടുന്നു അതുകൊണ്ട് പൊതുസമൂഹത്തെ നന്മയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യവും അദ്ധ്യാപനധർമ്മത്തിന് ഉണ്ട് അതുപോലെ പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതും പൊതുസമൂഹത്തിൻറെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്ന സർവകലാശാലയുടെ ധർമ്മവുമായി യോജിച്ചുപോകുന്നു അപ്പോൾ സർവകലാശാലകൾ ഞാൻ പറഞ്ഞതുപോലെ സാങ്കേതികവിദ്യ കൈമാറുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു അതിനാൽ വിപുലമായ വിതരണത്തിനായി സാങ്കേതികവിദ്യ പ്രചരിപ്പിക്കുന്നത് സർവകലാശാലകളിലൂടെ സംഭവിക്കുന്നു യു എസിൽ പ്രത്യേകിച്ചും 1980 മുതൽ 5000 ലധികം സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു അതായത് ബേയ് ഡോൾ ആക്റ്റിന് ശേഷം സർവ്വകലാശാലകൾ വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിരവധി സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഐഐറ്റികൾ സ്റ്റാർട്ടപ്പുകളെയും കമ്പനികളെയും ഇൻക്യൂബേറ്റ് ചെയ്തിട്ടുണ്ട് പ്രതേകിച്ച് ഐ ഐ ടി ബോംബേയ്ക്കും ഐ ഐ ടി മദ്രാസിനും കമ്പനികളെ ഇൻക്യൂബേറ്റ് ചെയ്യാനുള്ള ഗവേഷണ പാർക്കുകളുണ്ട് ഇന്ത്യയിൽ പ്രധാനമായും പിന്തുടരുന്ന മാതൃക യൂണിവേഴ്സിറ്റി പേറ്റന്റ്റുകളും ഇൻക്യൂബേറ്റുചെയ്യപ്പെട്ട കമ്പനികളും ലൈസൻസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ലൈസൻസിംഗ് നോക്കുകയാണെങ്കിൽ ഇൻക്യൂബേറ്റ് ചെയ്യപ്പെട്ട കമ്പനികൾ കുറച്ചേയുള്ളു എന്നാൽ പ്രധാന മോഡലായി കാണപ്പെടുന്നത് യൂണിവേഴ്സിറ്റി പേറ്റന്റ് ലൈസൻസ് ചെയ്യുന്നതാണ് അപ്പോൾ സർവകലാശാലകളിൽ ഐപിയുടെ പ്രാധാന്യം എന്താണ് ബ്ലോക്കബ്സ്റ്റർ സാങ്കേതികവിദ്യകളുടെ ലൈസൻസിംഗ് കേസുകൾ ഉണ്ട് ഒരു സാങ്കേതികവിദ്യ ദശലക്ഷത്തിനുമേൽ വരുമാനം നേടുകയാണെങ്കിൽ നമ്മൾ അതിനെ ബ്ലോക്കബ്സ്റ്റർ സാങ്കേതികവിദ്യ എന്ന് വിളിക്കുന്നു അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ യുണൈറ്റഡ് സ്റ്റേസിലുണ്ട് ടാക്സോൾ എന്ന ക്യാൻസർ മരുന്ന് വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നിർണ്ണായക പങ്കുവഹിച്ചു അവർ ബ്രിസ്റ്റോൾ മയേഴ്സ് സ്ക്യൂബ് എന്ന മരുന്ന് കമ്പനിയുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഏതാണ്ട് 45 ദശലക്ഷം രൂപയുടെ വരുമാനം നേടി യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ട എച്ച് ഐ വി എയ്ഡ്സ് മരുന്നായ അബാക്കവിർ വികസിപ്പിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു ഇത് അവർക്കു ഏതാണ്ട് 370 ദശലക്ഷം ഡോളറിന്റെ വരുമാനം നേടി കൊടുത്തു അതുപോലെ നഷ്ടസാദ്ധ്യത നിലനിൽക്കുന്നതുകൊണ്ട് സർവ്വകലാശാലകൾ പേറ്റന്റുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ പോരാടാൻ ഇടയുണ്ട് സർവ്വകലാശാലകൾ കമ്പനികളുമായും മറ്റ് സർവകലാശാലകളുമായും തർക്കത്തിലേർപ്പെട്ട നിരവധി കേസുകൾ ഉണ്ട് സർവ്വകലാശാലകൾ തങ്ങളുടെ സ്വന്തം ജീവനക്കാരുമായും പ്രൊഫസറുമാരുമായും വ്യവഹാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് യൂ എസിൽ അത്തരത്തിൽ പ്രാധാന്യം നേടിയ ഒരു കേസാണ് മാഡി വേഴ്സസ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി എന്നത് 2002 ലാണ് ഈ തീരുമാനം പുറത്തുവന്നത് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മാഡിയെ ജോലിക്ക് നിയമിച്ചു അതിനെ തുടർന്നുണ്ടായ ചില തർക്കങ്ങളുടെ ഫലമായി ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിക്കെതിരെ മാഡി ഒരു നിയമ ലംഘന കേസ് ഫയൽ ചെയ്തു തങ്ങൾ ഗവേഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം എന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗവേഷണത്തിനുതകുന്നതാണ് അതുകൊണ്ട് സാങ്കേതികമായി അത് പേറ്റന്റ് ലംഘനത്തിൽ വരരുത് എന്നും ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി വാദിച്ചു മറുവശത്ത് പ്രൊഫസർ മാഡി ആകട്ടെ ഡ്യൂക്ക് സർവകലാശാല തങ്ങളുടെ സാങ്കേതികവിദ്യ വാണിജ്യവത്കരിക്കുന്നതിൽ അത്യുത്സുകർ ആണെന്നും അതിനാൽ സാധാരണയായി വിദ്യാർത്ഥികൾക്ക് ശിക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന സർവകലാശാലകൾക്ക് ഗവേഷണത്തിൽ നിന്ന് നൽകുന്ന ഒഴിവ് തങ്ങളുടെ സാങ്കേതികവിദ്യ വാണിജ്യവത്കരിക്കുന്ന ഒരു സർവകലാശാലയ്ക്ക് നൽകരുതെന്നും ഇത് യുണൈറ്റഡ് സ്റ്റേസിലെ മിക്ക സർവ്വകലാശാലകൾക്കും ബാധകമാണെന്നും വാദിച്ചു സാങ്കേതിക വിദ്യ വാണിജ്യവത്കരിക്കുന്നത് കൊണ്ട് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി ഗവേഷണലക്ഷ്യം ഒഴിവാക്കപ്പെട്ട സ്ഥാപനമായിരിക്കില്ലെന്ന് ഇത് പരിഗണിച്ച അപ്പീൽ കോടതി ഉത്തരവിട്ടു ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയിൽ നമുക്കിതിന് ശക്തമായ അപവാദങ്ങളുണ്ട് വാണിജ്യവത്കരണ ലക്ഷ്യത്തോടെ അല്ല വിദ്യാർത്ഥികളുടെ ശിക്ഷണവുമായി ബന്ധപ്പെട്ടതും ഗവേഷണലക്ഷ്യങ്ങളോടെയും സർവ്വകലാശാല നടത്തുന്ന പലതും പേറ്റന്റ് ലംഘനമായേക്കാവുന്ന കാര്യങ്ങളാണ് എന്നാൽ സർവകലാശാല തങ്ങളുടെ ഗവേഷണ ഉൽപ്പന്നങ്ങൾ വാണിജ്യവത്ക്കരിക്കാൻ തുടങ്ങികഴിഞ്ഞാൽ മാഡി വേഴ്സസ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി കേസിൽ സംഭവിച്ചതുപോലെ ഗവേഷണവും വാണിജ്യവത്ക്കരണവും തമ്മിൽ വേർതിരിച്ച് ഒരു രേഖ വരയ്ക്കാൻ പ്രയാസമാണ് അടുത്തിടെ വികസപ്പിച്ച സി ആർ ഐ എസ് പി ആർ സിഎഎസ് 9 സാങ്കേതിക വിദ്യയുണ്ട് സാധാരണയായി ജീൻ എഡിറ്റിംഗ് എന്ന് വിളിക്കുന്ന ഡി എൻ എയുടെ സ്നിപ്പെറ്റുകൾ മാറ്റിയെഴുതാൻ ഉപയോഗിച്ച സാങ്കേതികവിദ്യയായിരുന്നു അത് ഇത് സാങ്കേതിക പ്രശ്നങ്ങളേക്കാൾ അധികം ജനിതക മെറ്റീരിയൽ എഡിറ്റുചെയ്യുന്നതിലെ ചിലവ് സംബന്ധമായ ധാർമ്മിക പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പലപ്പോഴും ഭ്രൂണഘട്ടത്തിൽ ഈ സാങ്കേതികത ഉപയോഗിക്കുന്നതിനാൽ ഈ എഡിറ്റിംഗിന്റെ ആത്യന്തിക ഫലം എന്താണെന്ന് പ്രവചിക്കാൻ മിക്കപ്പോഴും ഗവേഷകർക്ക് കഴിയാറില്ല ഇത് ചില ധാർമികപ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ബ്രോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംഐടിക്കും ഹാർവാർഡിനുമെതിരെ യുസി ബെർക്ക്ലിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു യുസിബി 2012 ൽ പേറ്റന്റ് ഫയൽ ചെയ്തു എന്നാൽ ബ്രോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2014 ൽ ആദ്യമായി പേറ്റന്റ് നേടുകയും ചെയ്തു ഇത് ഒരു ഓവർ ലാപ്പിങ്ങ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അനുബന്ധ സാങ്കേതികവിദ്യ ലോക്ക് അപ്പ് ചെയ്യുന്നതിനായി രണ്ട് സ്ഥാപനങ്ങളും പേറ്റന്റുകളിൽ വ്യത്യാസങ്ങൾക്കായി അപേക്ഷിച്ചിക്കുകയായിരുന്നു ഈ രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് കാണാൻ കഴിയും പ്രത്യേകിച്ചും ഓഹരികൾ ഉയരുമ്പോൾ സംരംഭക സർവകലാശാലയും പേറ്റൻറ് വ്യവഹാരത്തിലേക്ക് പോകുന്നതായി കാണാം സ്ലൈഡ് സമയം കാണുക 1123 ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഗവേഷണം എത്തിക്കുന്നതിന്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് മികച്ച കമ്പനികളെ സൃഷ്ടിക്കുന്നതിനായി ലാബുകളിലെ ഗവേഷണം വളരെ പ്രൊഫഷണലായി ഉപയോഗപ്പെടുത്തുന്നത് പ്രൊഫസർമാരാണ് എന്നതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറായ ഹെർബർട്ട് ബോയർ ബിയോടെക്നോളോജിയുമായി ബന്ധപ്പെട്ട പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊന്നായ ജനിടെക്കിന്റെ സഹസ്ഥാപകനാണ് അവർ 1978 ൽ സിന്തറ്റിക് ഹ്യൂമൻ ഇൻസുലിൻ വികസിപ്പിച്ചെടുത്തു 2009ൽ കമ്പനിയെ ഹോഫ്മാൻ ലാ റോച്ചെ ഏറ്റെടുത്തു ഇന്ത്യയിൽ ഇതിന് എനിക്കറിയാവുന്ന ഒരു ഉദാഹരണമാണ് യോടലീ ഇങ്ക് എന്ന കമ്പനി ഐ ഐ ടി മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രമുഖ അക്കാദമിക്ക് ഡോ പി വെങ്കട് രംഗനാണ് വാണിജ്യ വിജയം നേടിയ ഈ കമ്പനിയുടെ സ്ഥാപകൻ കേംബ്രിഡ്ജ് സർവകലാശാലയിലുള്ള എംആർസി ലബോറട്ടറി ഓഫ് മോളിക്യുലർ ബയോളജിയിലെ ശാസ്ത്രജ്ഞരെ തേടി എത്തിയത് 11 നോബൽ സമ്മാനങ്ങളാണ് എൽ എം ബിയുടെ പ്രവർത്തനങ്ങളുടെ ലൈസൻസിംഗ് ഹ്യൂമിറയുടെ വികസനത്തിലേക്ക് നയിച്ചു ഹ്യൂമിറ സ്വയംപ്രതിരോധ രോഗങ്ങൾക്കുള്ള ലോകത്തിൽ എറ്റവുമധികം വിൽക്കപ്പെടുന്ന മരുന്നുകളിൽ ഒന്നാണ് റോയൽറ്റി ഇനത്തിൽ നിന്നും ഷെയർ സെയിൽസ് ബൌദ്ധികസ്വത്തിന്റെ ലൈസൻസിങ് മുതലായവയിൽ നിന്നും ഏതാണ്ട് 700 ദശലക്ഷം പൌണ്ടിലധികം വരുമാനം നേടാൻ ഇതിന് കഴിഞ്ഞു സർവ്വകലാശാലകൾ വികസിപ്പിച്ചെടുത്ത ബൌദ്ധിക സ്വത്തവകാശം വിപണി എങ്ങെനെ നോക്കി കാണുന്നു എന്നതിന്റെ പ്രാധാന്യം മനസിലാക്കാൻ സഹായകമാകുന്ന ഒരു സൂചനയാണിത്